പ്രഭാഷണം 04 എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ആമുഖം IV എല്ലാവർക്കും സ്വാഗതം എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് കുറിച്ചുള്ള നമ്മുടെ എൻ എൽ ഓൺലൈൻ സർട്ടിഫിക്കേഷൻ കോഴ്സുകളിലേക്ക് സ്വാഗതം ഞാൻ ഐഐടി ഖരഗ്പൂരിലെ രാജരാം നമ്മുടെ പ്രഭാഷണ നമ്പർ 4 ലേക്ക് സ്വാഗതം പ്രഭാഷണം 3 ൽ ഒരു സാങ്കേതിക ഡ്രോയിംഗിന്റെ അടിസ്ഥാന ഡൈമെൻഷൻസ്കളും ഡ്രോയിംഗ് ഷീറ്റിന്റെ ലേ ലേഔട്ട് നോക്കാൻ നമ്മൾ ശ്രമിച്ചു കൂടാതെ അടിസ്ഥാന ഡൈമെൻഷൻസ്കളും അവയുടെ പദങ്ങളും ഉപയോഗിച്ച് നമ്മൾ പ്രഭാഷണം 3 അവസാനിപ്പിച്ചു അതിനായി ഒരു വ്യാസം ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന ഡൈമെൻഷൻസ് ഡൈമെൻഷൻ രേഖ അമ്പടയാളങ്ങളുടെയും വിപുലീകരണ രേഖകളുടെയും അവസാനിപ്പിക്കൽ ചിഹ്നങ്ങൾ ആരം ചിഹ്നം ആയ ആർ അതിന്റെ ഡൈമെൻഷൻ എന്നിവയെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതിനു ഒരു ഡ്രോയിംഗിന്റെ ഉദാഹരണം നമ്മൾ എടുത്തു ഫൈയും വ്യാസവും സൂചിപ്പിക്കുന്നത് ഈ മുഴുവൻ കാര്യവും അതിന്റെ ചിഹ്നവുമാണ് ലോംഗ് ഡാഷ് ഡോട്ട് ഡാഷ് എന്നിവയെ കുറിച്ചും ഏതെങ്കിലും സെന്റർ ലൈനുകൾ ഉണ്ടെങ്കിൽ ഒരു ലോംഗ് ഡാഷ് അതിനുശേഷം ഒരു ഹ്രസ്വ ഡാഷ് തുടർന്ന് ഒരു ലോംഗ് ഡാഷ് എന്നിവയും കൂടാതെ റഫറൻസ് ഡൈമെൻഷൻസ്നെ എങ്ങനെ പ്രതിനിധീകരിക്കാമെന്ന് നമ്മൾ പഠിച്ചു ഈ പ്രഭാഷണത്തിൽ ഒരു സാങ്കേതിക ഡ്രോയിംഗിനായി ഉപയോഗിക്കേണ്ട ഡൈമെൻഷൻറെ അടിസ്ഥാന യൂണിറ്റുകളെക്കുറിച്ച് നമ്മൾ പഠിക്കും അമേരിക്കൻ പ്രയോഗത്തിൽ ഇഞ്ച് ഡെസിമൽ ഇഞ്ച് ഫ്രാക്ഷണൽ ഇഞ്ച് അടി എന്നിവ ഉപയോഗിക്കും ഇന്ത്യൻ മാനദണ്ഡങ്ങൾക്കായി ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് സൂചിപ്പിക്കുന്ന എസ്ഐ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ നമ്മൾ മില്ലിമീറ്റർ ഉപയോഗിക്കുന്നു ഡ്രോയിംഗിനായി നമ്മൾ എസ്ഐ അല്ലെങ്കിൽ മെട്രിക് യൂണിറ്റുകൾ ഉപയോഗിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ മില്ലിമീറ്റർ ഉപയോഗിക്കുന്നു സാധാരണയായി സാങ്കേതിക ഡ്രോയിംഗുകളിൽ എല്ലാ ഡൈമെൻഷൻസ്കളും മില്ലീമീറ്ററിൽ പരാമർശിക്കുന്നു അത്തരം ഡ്രോയിംഗുകളിൽ ഡ്രോയിംഗിലെ എല്ലായിടത്തും നമ്മൾ മില്ലിമീറ്റർ പരാമർശിക്കാറില്ല അടിസ്ഥാന യൂണിറ്റുകളെ പരാമർശിക്കാതെ നമ്മൾ 1 25 പോലുള്ള അക്കങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഡ്രോയിംഗ് ഷീറ്റിൽ എല്ലാ ഡൈമെൻഷൻസ് മില്ലീമീറ്ററിലാണ് എന്നത് പ്രതിനിധീകരിക്കുന്നത് ഒരു പതിവാണ് നമ്മൾ മെട്രിക് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ ഡൈമെൻഷൻസ്ലും നമ്മൾ ലീഡിംഗ് 0 ഇടുന്നു പക്ഷേ അത് ഇഞ്ചാണെങ്കിൽ നമ്മൾ അത് ഇടാറില്ല ഉദാഹരണത്തിന് 0 50 യൂണിറ്റുകൾ പോലുള്ളവയെ പ്രതിനിധീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ആദ്യത്തെ 0 നമ്മൾ മെട്രിക് സിസ്റ്റത്തിൽ കാണിക്കുന്നു അത് ഇഞ്ചാണെങ്കിൽ അത് വെറും 50 ആയിരിക്കും ഡ്രോയിംഗ് ഷീറ്റുകളിലെ ഡ്രോയിംഗുകൾ നമ്മൾ നോക്കുമ്പോഴെല്ലാം അടിസ്ഥാന ഡൈമെൻഷൻസ്കൾ 5 ആയി പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ അത് ഇഞ്ച് സിസ്റ്റത്തിലാണെന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഇത് 0 50 ആണെങ്കിൽ അത് ഒരു മെട്രിക് സിസ്റ്റമാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഓരോ ഡൈമെൻഷൻസ്ലും യൂണിറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ ഡ്രോയിംഗിൽ ഒരു കുറിപ്പിനൊപ്പം യൂണിറ്റുകൾ വ്യക്തമാക്കുക അല്ലെങ്കിൽ വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ എല്ലാ ഡൈമെൻഷൻസ്കളും മില്ലീമീറ്ററിലാണ് എന്ന് സൂചിപ്പിക്കുക യൂണിറ്റുകളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു തരം ടെംപ്ലേറ്റാണിത് ഒരു സാദാ ഫിഗർ ഉദാഹരണം ആയി ഉപയോഗിച്ച് നമുക്ക് ഡൈമെൻഷൻസ്കളും യൂണിറ്റുകളും മനസിലാക്കാം ഇവിടെ നമുക്ക് ഒരു സ്റ്റെയർകേസ് ഡ്രോയിംഗ് ഉണ്ട് ഉദാഹരണത്തിന് ഡ്രോയിംഗായി നൽകിയിരിക്കുന്ന ഗോവണി ഇതാണ് ഈ ഡ്രോയിംഗിൽ ഡൈമെൻഷൻസ് ഉണ്ട് ഇവിടെ നിന്ന് ഇവിടേക്ക് എന്തോ പ്രതിനിധീകരിക്കുന്നു ആ നീളം എന്തുതന്നെയായാലും അതിനെ ഒരു രേഖ അമ്പടയാളങ്ങൾ 5 25 നമ്പർ എന്നിവ ഉപയോഗിച്ച് പ്രതിനിധീകരിക്കുന്നു ഇത് അടിസ്ഥാന ഡൈമെൻഷൻസ്കളിലൊന്നാണ് ഇവിടെ നിന്ന് ഇവിടെ വരെ ഉള്ള നീളം 4 യൂണിറ്റുകൾ പ്രതിനിധീകരിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ വരെ ആ രേഖ 2 75 ആണ് ശ്രദ്ധിക്കുക ഒബ്ജക്റ്റിന് പുറത്തുള്ള ഈ ഡൈമെൻഷൻസ്കൾ നമ്മൾ കാണിക്കാറില്ല അതിനുള്ളിൽ നമ്മൾ ഇത് പരാമർശിക്കുന്നില്ല 5 25 ഇത് ഇതുപോലുള്ള ഒരു കാര്യമാണ് ഇതുപോലുള്ള ഒബ്ജക്റ്റിന് പുറത്ത് നിങ്ങൾ ഏതെങ്കിലും ഡൈമെൻഷൻസ് പരാമർശിക്കുകയാണെങ്കിൽ ഇത് ഒരു തെറ്റായ രീതിയാണ് അതുപോലെ ഇവിടെ നിന്ന് ഇവിടെയും നമ്മൾ ഇത് പുറത്ത് കാണിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെയും നമ്മൾ അത് പുറത്ത് കാണിക്കുന്നു ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ഏറ്റവും കുറഞ്ഞ ഡൈമെൻഷൻ ഉള്ളിൽ പരാമർശിക്കുകയും ഡൈമെൻഷൻന്റെ മൂല്യം വർധിക്കുന്നത് അനുസരിച്ചു അത് പുറത്ത് സൂചിപ്പിക്കുകയും വേണം ഏറ്റവും വലിയ ഡൈമെൻഷൻ കൂടുതൽ പുറത്ത് സൂചിപ്പിക്കണം നമുക്ക് ഇവിടെയും നോക്കാം അതുപോലെ നമുക്ക് ഇത് നോക്കാം നമുക്ക് അത് നോക്കാം അതിനാൽ അകത്തെ വിശദാംശങ്ങളിൽ നമുക്ക് ഇത് കാണിക്കാൻ കഴിയും കുറഞ്ഞത് 10 മില്ലീമീറ്റർ ദൈർഘ്യമുള്ളിടത്തോളം നമുക്ക് ഇത് നിലനിർത്താൻ കഴിയും അതിനാൽ ആ വിടവ് കുറവാണെങ്കിൽ നമുക്ക് അമ്പടയാളങ്ങളുള്ള ഒരു തുടർച്ചയായ രേഖ വരയ്ക്കാം അത് ഉള്ളിൽ കാണിക്കുന്നത് ശുപാർശ ചെയ്യുന്ന ഒരു രീതിയല്ല അതിനുപകരം പുറത്തുനിന്നുള്ള ഏറ്റവും കുറഞ്ഞ ഡൈമെൻഷൻ 0 75 നമ്മൾ കാണിക്കുന്നു അടുത്തത് ഇവിടെ നിന്ന് ഇവിടെയാണ് ഈ ഉയരം ഇത് പ്രൊജക്ഷൻ ഉയരം ആണ് ലംബമായ ഇത് 1 5 ആണ് ഇവിടെ നിന്ന് ഇവിടെ വരെ അത് 2 5 ആണ് നമ്മൾ ഈ കാണുന്നത് ഒരു പടിയാണ് കൂടാതെ അമ്പടയാളങ്ങളുള്ള തുടർച്ചയായ രേഖകളാണ് അതിന്റെ ഡൈമെൻഷൻസ് 2 ഡി ഒബ്ജക്റ്റ് പോലുള്ള ഒരു തലം ഒബ്ജക്റ്റിന് പകരം അത് ഒരു സിലിണ്ടർ വസ്തുവാണെങ്കിൽ നമുക്ക് അത് നോക്കാം ഷീറ്റിലെ ഒബ്ജക്റ്റ് രേഖകളോടെ കാണപ്പെടുന്നതായി ഇവിടെ കാണാം പിന്നീടുള്ള പ്രഭാഷണങ്ങളിൽ ഇത്തരത്തിലുള്ളവ എങ്ങനെ നിർമ്മിക്കാമെന്നും ഈ മുഴുവൻ വസ്തുവും കൃത്യമായി എന്താണ് പ്രതിനിധീകരിക്കുന്നത് എന്നും നമ്മൾ മനസിലാക്കും എന്നാൽ ഈ ക്ലാസ്സിൽ ഡൈമെൻഷൻസ് ക്കുറിച്ച് നമ്മൾ പഠിക്കും ഇവിടെ നമ്മൾ ആ ത്രിമാന വീക്ഷണകോണിലേക്ക് നോക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഇത് ഒരു സിലിണ്ടറാണ് അത് വീണ്ടും അത്തരം സിലിണ്ടർ ഒബ്ജക്റ്റ് പിന്തുടരുന്നു നിങ്ങൾ ലേത്ത് മെഷീനുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രവർത്തനം തിരിയുന്നതിനുശേഷമുള്ള ഘട്ടങ്ങളാണിത് അത്തരം ടേണിംഗുകളോ പടികളോ നിർമ്മിക്കുന്നത് വളരെ എളുപ്പമാണ് അതിനാൽ ഇവിടെ മൂന്ന് സിലിണ്ടറുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരൊറ്റ മെഷീൻ ഒബ്ജക്റ്റ് ഉണ്ട് അവിടെ നിങ്ങൾ ഒരു ദൂരം അല്ലെങ്കിൽ ഒരു വ്യാസം മറ്റൊരു വ്യാസം മറ്റൊരു വ്യാസം എന്നിവ തിരിയുന്ന പ്രവർത്തനം നടത്തി നമ്മൾ ഒരു 2 ഡി കാഴ്ചയായി നോക്കുകയോ ഒന്നുകിൽ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് നിന്ന് നോക്കുകയോ അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ഭാഗത്ത് നിന്ന് നോക്കുകയോ ചെയ്താൽ അത്തരം 2 ഡി ഒബ്ജക്റ്റ് നമുക്ക് നിർമിക്കാൻ സാധിക്കും ഈ സാഹചര്യത്തിൽ നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് ഈ കാഴ്ചയിൽ നിന്നാണ് അതിനാൽ ഈ ഭാഗം ഈ ഭാഗമാണ് ഈ ഭാഗം നമ്മൾ ഇതായി കാണുന്നു ഈ ഭാഗം 90 ഡിഗ്രി ഒബ്ജക്റ്റ് തിരിക്കുന്നതാണ് അതാണ് നമ്മൾ കാണാൻ ശ്രമിക്കുന്നത് അതിനാൽ ഇത് ഒരു സിലിണ്ടർ ആണ് അതാണ് കാരണം നമുക്ക് ഈ ഡാഷ് ലോംഗ് ഡാഷ് അതിനുശേഷം ഒരു ഹ്രസ്വ ഡാഷ് അതിനുശേഷം ഒരു ലോംഗ് ഡാഷ് ഷോർട്ട് ഡാഷ് തുടങ്ങിയവയുണ്ട് ഇത്തരത്തിലുള്ള രേഖകളെ നമ്മൾ മധ്യരേഖകൾ എന്ന് വിളിക്കുന്നു ഇത്തരത്തിലുള്ള മധ്യരേഖകൾ കാണുമ്പോഴെല്ലാം ഇത് ഒരു സിലിണ്ടറിന്റെ ഭാഗമാണ് സൂചിപ്പിക്കുന്നത് ഈ സിലിണ്ടർ വസ്തുക്കൾക്കായി നമ്മൾ കാണിക്കുന്ന ഒരു പടി ഉണ്ട് അതിന് 1 75 നീളമുണ്ട് അതിനാൽ അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ഡൈമെൻഷൻസ്കളെല്ലാം കാണിക്കുന്നു നമ്മുടെ 2 ഡി ഒബ്ജക്റ്റുകൾക്ക് സമാനമായി പ്ലെയിൻ ഒബ്ജക്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് ഏറ്റവും ചെറിയ ഇടത്തരം ദൈർഘ്യമേറിയ ഡൈമെൻഷൻസ്കൾ പിന്തുടർന്നതെന്ന് നമ്മൾ അത് ആ രീതിയിൽ കാണിക്കുന്നു എല്ലായ്പ്പോഴും ഈ അമ്പടയാളങ്ങൾ അവസാനിക്കുന്നത് തുടർച്ചയായ ഒരു രേഖയിൽ ആയിരിക്കും ഇപ്പോൾ ഇത് ഒരു സിലിണ്ടർ വസ്തുവായതിനാൽ ഈ ദിശയിലും ചില ഡൈമെൻഷൻസ് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ഒരു സിലിണ്ടർ വസ്തുവാണ് സാധാരണയായി വ്യാസങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ഓരോ പടികൾക്കു ഇടയിൽ ഉള്ള ദൂരം കാണിക്കുന്നതിനുപകരം നമ്മൾ കാണിക്കാത്ത വിടവ് എന്താണ് നമ്മൾ കാണിക്കുന്ന ആ വ്യാസം എന്താണ് ആ പടിയുടെ വ്യാസം എന്താണ് അതാണ് നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനാൽ ഈ ഒബ്ജക്റ്റിന്റെ വ്യാസം ഈ സിലിണ്ടർ ഭാഗമാണ് നമ്മൾ നേരത്തെ നോക്കിയത് ഈ വ്യാസം 2 യൂണിറ്റാണ് അതിനാൽ അതാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഫൈ എന്ന ചിഹ്നം വ്യാസത്തെ പ്രതിനിധീകരിക്കുന്നു പുറത്തെ ഒബ്ജക്റ്റ് 3 യൂണിറ്റും അങ്ങേയറ്റത്തെത് 4 യൂണിറ്റുമാണ് അതിനാൽ ഏറ്റവും കുറഞ്ഞ ഡൈമെൻഷൻ ആദ്യം വരുന്നു അതിനുശേഷം ഇടത്തരവും പിന്നീട് ദൈർഘ്യമേറിയതും വരുന്നു നമുക്ക് കോണുകളോ ചെരിഞ്ഞ ഭാഗങ്ങളോ ഉണ്ടെങ്കിൽ ഈ കോണുകളെ സൂചിപ്പിക്കാൻ ഒരാൾ സാധാരണ പദങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമുക്ക് ഈ ഒബ്ജക്റ്റ് നോക്കാം ഇത് 2 ഡി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സിലിണ്ടർ ഒബ്ജക്റ്റ് പോലുള്ള 3 ഡി ഒബ്ജക്റ്റ് ആണോ കാരണം നമുക്ക് സെന്റർ ഡാഷ് രേഖകളൊന്നുമില്ല ഒരുപക്ഷേ ഇത് ഒരു പ്ലാനർ വസ്തുവായിരിക്കണം ഇവിടെ ഈ റഫറൻസ് രേഖയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത് 2 5 യൂണിറ്റുകളായി കാണിക്കുന്നു ഇവിടെ നിന്ന് നമ്മൾ ഇത് 4 ആയി കാണിക്കാൻ പോകുന്നു ഒരാൾക്ക് ഇത് 4 ആയി കാണിക്കാനും കഴിയും എന്നാൽ ഈ ഡൈമെൻഷൻസ് കാണിക്കുന്നതിനുള്ള സ്റ്റാൻഡേർഡ് പ്രാക്ടീസ് 2 5 ആണ് എന്തായാലും നമ്മൾ കാണിക്കേണ്ടതുണ്ട് ആ റഫറൻസ് രേഖയുമായി ബന്ധപ്പെട്ട് ഇത് വളരെ എളുപ്പമായിരിക്കും നമുക്ക് 4 പോലുള്ള യൂണിറ്റുകൾ കാണിക്കാൻ കഴിയും ഇത് ഡ്രോയിംഗ് ലളിതമാക്കുന്നു അതിനാൽ മറ്റ് വശങ്ങളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ആ ഭാഗത്ത് അത് കാണിക്കുന്നതാണ് സാധാരണ രീതി ഇത് കാണിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നിരുന്നാലും ഇത് ഒരു സാധാരണ രീതിയല്ല ഇപ്പോൾ ഈ ദൈർഘ്യം നമുക്ക് നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ നമ്മൾ 1 യൂണിറ്റ് 1 00 ആയി ഇവിടെ കാണിക്കുന്നത് ഇത് നമ്മൾ 2 5 ആയി കാണിക്കുന്നു ഒരാൾക്ക് ഈ വിധത്തിൽ അത് കാണിക്കാൻ കഴിയും പക്ഷേ സ്റ്റാൻഡേർഡ് പ്രാക്ടീസുകൾ എന്തായാലും നമ്മൾ ഏതെങ്കിലും ഡൈമെൻഷൻസ് കാണിക്കുന്നുണ്ടെങ്കിലും ആവശ്യമുള്ള മറ്റ് ഡൈമെൻഷനുകൾ ഒരേ ദിശയിൽ കാണിക്കുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അതിനാൽ ശരിയായ മാർഗത്തെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ശരിയായ മാർഗ്ഗമാണിത് ഇപ്പോൾ ഇത് ഒരു ചെരിഞ്ഞ കട്ട് വിഭാഗമായതിനാൽ നമുക്ക് ഒരു ആംഗിൾ ആവശ്യമായി വന്നേക്കാം അതിനാൽ ഈ കോണുകൾ കാണിക്കുന്നതിന് രണ്ട് വഴികളുണ്ട് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റുകൾ കർശനമായി പിന്തുടരുകയാണെങ്കിൽ ഒരു കോണീയ കോർഡിനെറ്റ് കാണിക്കാതെ വെറും സംഖ്യകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് അടുത്ത ഉദാഹരണത്തിൽ ആ കോണുകളെ പ്രതിനിധീകരിക്കാൻ പോകുന്നത് എപ്പോഴാണെന്ന് നമ്മൾ കാണും ഈ അടിസ്ഥാന ഡൈമെൻഷൻസ്കൾ 2 5 4 0 ഇത് 0 25 എന്നിവ ഈ ചെരിഞ്ഞ ഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതിന് പര്യാപ്തമാണ് നമ്മൾ ഇതിനകം 2 5 ഈ രീതിയിൽ കാണിക്കുന്നതിനാൽ നമുക്ക് ഇവിടെ ഒരു ഡൈമെൻഷനും ആവശ്യമില്ല ഈ ഡൈമെൻഷൻസ്കൾ പ്രതിനിധീകരിക്കുന്നതിന് ഒതുക്കമുള്ളതോ ചുരുങ്ങിയതോ ആയ രീതിയിൽ ഒരാൾ പിന്തുടരണം അതിനാൽ ആവശ്യമായ എല്ലാ ഡൈമെൻഷനും കാണിക്കേണ്ടതുണ്ട് ഇവയാണ് അധിക വിവരങ്ങൾ നമ്മൾ കാണിക്കാൻ പോകുകയാണെങ്കിൽ ഈ ശ്രമങ്ങൾ കുറയ്ക്കുന്നതിനുള്ള രീതികൾ ഇത് മനസ്സിലാക്കുന്നു അതിനാൽ ഇത് നമുക്ക് 4 0 കാണിക്കാൻ കഴിയും എന്തായാലും നമ്മൾ അത് ആ ഭാഗത്ത് കാണിക്കുന്നു അതിനാൽ ഇത് ആവശ്യമായ ഡൈമെൻഷനുകളല്ല ഇവിടെ നമ്മൾ ഇതിനകം 2 5 കാണിക്കുന്നു ഈ ഡൈമെൻഷൻ ആ രീതിയിൽ ആവശ്യമില്ല അതിനാൽ ഈ ഡൈമെൻഷനെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഏറ്റവും ചുരുങ്ങിയ മാർഗ്ഗമാണിത് അതേ ഉദാഹരണത്തിൽ ചെരിഞ്ഞ കോണുകൾ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനാൽ ഒരേ ഒബ്ജക്റ്റിനെ 2 5 4 എന്ന് കാണിക്കാം എന്നാൽ ഈ ഉയരത്തെയോ നീളത്തെയോ പ്രതിനിധീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല അതിനുപകരം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഈ തിരശ്ചീന രേഖയുമായി ബന്ധപ്പെട്ട് ഒരു ചെരിവ് ഉണ്ട് അതിനാൽ നമ്മൾ ഇത് ഒരു ചെരിഞ്ഞ കോണായി കാണിക്കുന്നു അതിനാൽ 45 00 ഡിഗ്രി പരാമർശിക്കുന്നതിന് നമ്മൾ ഈ കോണീയ കാര്യം ഉപയോഗിക്കുന്നു അതിനാൽ ഇത് 45 ഡിഗ്രിയാണ് നമ്മൾ ഇത് കാണിക്കുമ്പോൾ ഈ ഡൈമെൻഷൻ 2 5 ആണെന്ന് നമുക്കറിയാം കൂടാതെ രേഖ 4 4 യൂണിറ്റുകൾകുള്ളിലായിരിക്കണം അതിനാൽ നമ്മൾ ഇവിടെ ഒരു ലംബ രേഖ വരയ്ക്കുകയും 2 5 യൂണിറ്റ് എടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഈ അവശേഷിക്കുന്ന പോയിന്റുകൾ എന്തുതന്നെയായാലും ആ പോയിന്റുകളെ 45 ഡിഗ്രി രേഖകളാൽ ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനർത്ഥം ഈ 2 5 ഡൈമെൻഷൻ ഇവിടെ നിന്ന് ഒരു പോയിന്റായി തിരിച്ചറിഞ്ഞാൽ 45 ഡിഗ്രി ലൈനുള്ള എന്റെ പ്രൊട്ടക്റ്റർ ഉപയോഗിച്ച് ഈ ലംബ രേഖകൾ തമ്മിൽ വിഭജിക്കുന്നത് വരെ അത് വരക്കുന്നു അതിനാൽ നിങ്ങൾ പ്രൊട്ടക്റ്റർ ഉപയോഗിച്ച് 45 ഡിഗ്രി നേർത്ത രേഖ വരയ്ക്കുക തുടർന്ന് ഈ ലംബ രേഖയെ പ്രൊജക്റ്റ് ചെയ്യുക അങ്ങനെ അത് എവിടെ വിഭജിക്കുന്നുവോ ആ കോണിൽ നമ്മൾ 45 ഡിഗ്രി കാണിക്കാൻ പോകുന്നു ചിലപ്പോൾ നമുക്ക് ചാംഫെർ എന്ന് പേരുള്ള ചെറിയ ഭാഗങ്ങളുണ്ട് നമ്മൾ ഏതെങ്കിലും വസ്തുക്കൾ എടുക്കുകയാണെങ്കിൽ ഈ വസ്തുക്കൾക്ക് മൂർച്ചയുള്ള കോണുകൾ ഉണ്ടാകണമെന്നില്ല ഉദാഹരണത്തിന് ഇത് അരികുകളുള്ള ഒരു പട്ടികയാണെങ്കിൽ ഈ കോണുകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതിനാൽ ഈ ആവശ്യത്തിനായി നമ്മൾ അതിനെ മുറിച്ചു മാറ്റുന്നു ഇതിനെ നമ്മൾ ചാംഫെറിംഗ് എന്ന് വിളിക്കുന്നു വൃത്താകൃതിയിലുള്ള കോണുകൾ ചാംഫെറിംഗ് അല്ല സൂചിപ്പിക്കുന്നത് പക്ഷേ നമ്മുടെ ഈ സാങ്കേതിക കോഴ്സിൽ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കും അതിനാൽ നമുക്ക് അത്തരം ചെറിയ കട്ടുകൾ ഉണ്ടാകുമ്പോഴെല്ലാം ഇവയെ ചാംഫെറിംഗ് എന്ന് വിളിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾ സിലിണ്ടർ ഒബ്ജക്റ്റുകൾ നിർമ്മിക്കാൻ താൽപ്പര്യപ്പെടുന്നു പക്ഷേ നമുക്ക് ഒരു കൃത്യമായ ലംബ രീതിയിൽ ഉള്ള കട്ട് ഇത്തരത്തിലുള്ള ഭാഗത്തേക്ക് നേരിട്ട് ചെയ്യാൻ കഴിയില്ല അതിനുപകരം നമ്മൾ ക്രമേണ നമ്മുടെ മെഷീൻ ഉപകരണം ഉപയോഗിക്കുകയും തുടർന്ന് മുന്നോട്ട് പോയി അത് നിർമ്മിക്കുകയും ചെയ്യുന്നു അതിനാൽ നമ്മൾ കാണുന്ന അത്തരം കോണുകളെയാണ് ചാംഫെറിംഗ് എന്ന് വിളിക്കുന്നത് അതിനാൽ ഇത് ഒരു ചാംഫെർ ആയതിനാൽ നമ്മൾ 45 ഡിഗ്രി വരകൾ ഉപയോഗിച്ച് കാണിക്കുന്നു ഉദാഹരണത്തിന് അത് ആ ചേംഫർ മുതൽ ഈ റഫറൻസ് ബേസ് വരെ ഇതാണ് റഫറൻസ് ബേസ് അതിനാൽ ആ കോണിൽ നമ്മൾ 45 ഡിഗ്രി കാണിക്കുന്നു കാരണം ഇത് ഒരു സിലിണ്ടർ വസ്തുവാണ് കാരണം നമുക്ക് ഒരു ഡാഷ് ഡോട്ട് രേഖ ഉണ്ട് ഈ ചാംഫറിംഗ് എല്ലായിപ്പോഴും 45 ഡിഗ്രി മാത്രമല്ല നമ്മൾ എത്ര ദൂരം പോകുന്നോ നമ്മൾ അതിനെ 0 25 ആയി പ്രതിനിധീകരിക്കുന്നു നമുക്ക് ദൈർഘ്യമേറിയ ഡൈമെൻഷൻസ്കൾ ലഭ്യമാകുമ്പോഴെല്ലാം നമ്മൾ അതിനെ ഇതുപോലെ കാണിക്കുന്നു എന്നാൽ അതിനുപകരം ആ സ്ഥലം തിരക്കില്ലാത്തപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള ഡൈമെൻഷൻ ആണ് അതിനാൽ ഈ പോയിന്റിലേക്ക് ഈ പ്രൊജക്ടർ ദൈർഘ്യം 0 25 ആണ് അതിൽ ആർക്കുകൾ ഉണ്ടെങ്കിൽ ഈ ഡൈമെൻഷൻസ് കാണിക്കുന്നതിൽ ശ്രദ്ധാലുവായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു റൂം ഫ്ലോർ ഉണ്ട് അവിടെ അരികുകൾ അല്പം കോണിലാണ് ഈ വശത്ത് മെറ്റീരിയൽ ഉള്ളതിനാൽ ഇതാണ് റൂം എയർ ഇതാണ് റൂം മെറ്റീരിയൽ ഇവ അരികുകളാണ് അതിനാൽ മെറ്റീരിയൽ ഉള്ളപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള ഹാഷ് രേഖകൾ ഉപയോഗിച്ച് നമ്മൾ അത് കാണിക്കുന്നു ഈ ഭാഗത്ത് മെറ്റീരിയൽ ഉണ്ടെന്നും ഈ ഭാഗത്ത് മെറ്റീരിയലില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു കട്ട് സെക്ഷൻ ഒബ്ജക്റ്റ് ഉള്ളപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് ഒരു ചതുരാകൃതിയിലുള്ള 3D ബ്ലോക്ക് എടുക്കാം അത് ഒരു ബോക്സ് അല്ലെങ്കിൽ ഇരുമ്പ് ബോക്സ് അല്ലെങ്കിൽ സോളിഡ് ബ്ലോക്ക് ആകാം അതിനാൽ എല്ലായിടത്തും മെറ്റീരിയൽ ഉണ്ട് ഇപ്പോൾ ആ ഫ്രെയിമിൽ അത് മുറിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഞാൻ അതിനെ രണ്ട് ഭാഗങ്ങളായി മുറിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവയെ വേർതിരിക്കുക ഇത് ഒരു ഭാഗമാണ് മറ്റേ ഭാഗം ഈ ഭാഗമാണ് അതിനെ നമുക്ക് ബി ഭാഗം എന്ന് വിളിക്കാം മുൻഭാഗം എ എന്ന് വിളിക്കാം എനിക്ക് ബി ഭാഗം കാണിക്കണമെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഹാഷുകൾ ഉപയോഗിച്ച് കാണിക്കുന്നു കാരണം അവിടെ മെറ്റീരിയൽ ലഭ്യമാണ് അതിനാൽ നമ്മൾ ഹാഷ് ഉപയോഗിച്ച് കാണിക്കുന്നു മെറ്റീരിയൽ ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഹാഷും കാണിക്കുന്നില്ല എന്നിരുന്നാലും അതിന്റെ ആരം 6 യൂണിറ്റാണ് ഇത് R ചിഹ്നത്താൽ പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ റേഡിയസുകൾ ഉള്ളപ്പോഴെല്ലാം നമ്മൾ അത് ആ രീതിയിൽ കാണിക്കണം ഇത് 6 യൂണിറ്റ് ആകാം 10 യൂണിറ്റ് ആകാം നമുക്ക് R19 ആരം ഉള്ള മറ്റൊരു ഉദാഹരണം നോക്കാം ഇവ ദ്വാരങ്ങളാണ് ഒരുപക്ഷേ ഇത് ഒരു സിലിണ്ടർ ആകൃതിയിലേക്ക് പോകുന്നുണ്ടാകാം ഇത് ഡാഷ് ഡോട്ട് തരത്തിലുള്ള രേഖകളുള്ളതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വളവുകൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മൾ അതിന്റെ ദൂരം കാണിക്കുന്നു ഈ ഡൈമെൻഷൻസ് വിശദമായി കാണിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു ഒബ്ജക്റ്റ് പരാമർശിച്ചിരിക്കുന്ന ഷീറ്റ് ഡ്രോയിംഗിന്റെ ഒരു ഉദാഹരണം നമ്മൾ ഇവിടെ എടുക്കുന്നു ടൈറ്റിൽ ബ്ലോക്ക് ഒരുപക്ഷേ മെറ്റീരിയൽ അവിടെയുണ്ട് അതുകൊണ്ടാണ് ഈ ഹാഷിംഗ് നടത്തിയതിന്റെ കാരണവും നമ്മൾ കാണിക്കാൻ ആഗ്രഹിക്കുന്ന സങ്കീർണ്ണമായ വിശദാംശങ്ങളും ഉദാഹരണത്തിന് ഈ ചെറിയ ചുവപ്പ് ഒന്ന് നോക്കാം ഈ ഡ്രോയിംഗ് ഷീറ്റിന്റെ വശങ്ങളിൽ നമ്മൾ ഇത് വിപുലമായി കാണിക്കുന്നു അതിനാൽ സങ്കീർണ്ണമായ ഡൈമെൻഷൻസ് പരാമർശിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് വ്യക്തമായ കട്ട് ഡൈമെൻഷൻസ്കളുള്ള ഒരു പ്രത്യേക ഒന്നായി നമ്മൾ ഇത് കാണിക്കുന്നത് ഇതിന്റെ ആരം 0 05 യൂണിറ്റ് ആണ് അതിനെ നമ്മൾ വിശദമായ ഡൈമെൻഷൻസ് എന്ന് വിളിക്കുന്നു നമ്മൾ പ്രത്യേകമായി കാണിക്കാൻ താൽപ്പര്യപ്പെടുന്ന സങ്കീർണ്ണമായ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സർക്കിൾ ചെയ്തു വട്ടമിട്ട് കാണിക്കുന്നു മറ്റ് അടിസ്ഥാന ഡൈമെൻഷൻസ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതാണ് ഇത് ഒരു സിലിണ്ടർ വസ്തുവായതിനാൽ വ്യാസം ഡൈമെൻഷൻ ചെയ്യേണ്ടതുണ്ട് ഈ ഡൈമെൻഷൻസ് കാണിക്കുന്നതിന് കുറച്ച് നിയമങ്ങളുണ്ട് നമുക്ക് എൽ എസ് LS തുടങ്ങിയവയുള്ള ഒരു സ്കീമാറ്റിക് നോക്കാം ചില തുടർച്ചയായ രേഖകൾ ചില ഡാഷ് ഡോട്ട് രേഖകൾ ചില ഡാഷ് ചെയ്ത രേഖകൾ എന്നിവ ഉപയോഗിച്ച് ഡൈമെൻഷൻസ് കാണിക്കാം അതിനർത്ഥം അവിടെ ഒരു ദ്വാരമുണ്ട് എന്നാണ് അതിനാൽ നീളം വീതി ഉയരം സർക്കിളുകളുടെ വ്യാസം ആർക്കുകളുടെ ദൂരം തുടങ്ങിയവ നിർവചിക്കാൻ എസ് ഡൈമെൻഷൻസ് ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് നമുക്ക് എസ് എസ് വീണ്ടും എസ് എസ് നോക്കാം ഒരാൾ ഉപയോഗിക്കുന്ന പ്രധാന ഡൈമെൻഷൻസ് ഇവയാണ് സ്ഥാന ഡൈമെൻഷൻസ്കളുമായി ബന്ധപ്പെട്ട് സ്ഥാന ഡൈമെൻഷൻസ് പോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രധാന സവിശേഷതകൾക്ക് കീഴിൽ സർക്കിളുകളുടെ മധ്യഭാഗം ആയ എൽ കണ്ടെത്തുക എന്നതാണ് നമുക്ക് ഈ സ്ഥാന ഡൈമെൻഷൻസ്കൾ നോക്കാം അതിനാൽ ഈ കേന്ദ്രം മുഴുവൻ ആ എൽ യൂണിറ്റുകളിലാണ് ഈ ദ്വാരം ഈ ദിശയിൽ എൽ ന്റെ സ്ഥാനത്താണ് അടിസ്ഥാന അളവുകൾ എല്ലായ്പ്പോഴും ആ സർക്കിളിന്റെയോ ദ്വാരത്തിന്റെയോ വ്യാസം ഫൈ എസ് ആണ് നീളം എസ് ആണ് ഈ പൂർണ്ണ നീളം എസ് ആണ് ഈ പൂർണ്ണ ദൈർഘ്യം എസ് ഉം മറ്റും ആണ് എന്നാൽ ഒരു പ്രത്യേക അടിത്തറയുമായി ബന്ധപ്പെട്ട് സ്ഥാനം ഡൈമെൻഷൻ കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുമ്പോഴെല്ലാം ചില കേന്ദ്രങ്ങളുണ്ട് നമ്മൾ അത് ആ രീതിയിൽ കാണിക്കും ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഓരോ തവണയും ഒരേ ഡൈമെൻഷൻ ആവർത്തിക്കില്ല അതിനാൽ ചുരുങ്ങിയ രീതിയിൽ ഒരാൾ ഈ ഡൈമെൻഷൻസ്കൾ കാണിക്കേണ്ടതുണ്ട് നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിയമങ്ങൾ എന്തെന്നാൽ സവിശേഷതയുടെ സ്വഭാവരൂപം കാണിക്കുന്ന തരത്തിൽ അതിന്റെ അളവ് ഡൈമെൻഷൻ ചെയ്യുക അതിനാൽ പ്രധാന സവിശേഷതകൾ ഈ ഡൈമെൻഷൻകളിലൂടെ അറിയിക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് ഭാഗങ്ങൾ ഭിന്നസംഖ്യകളല്ല മറിച്ചു ദശാംശങ്ങളോടുകൂടിയ മില്ലിമീറ്ററിലാണ് പ്രതിനിധീകരിക്കേണ്ടത് മെട്രിക് ഭാഗങ്ങൾ ദശാംശങ്ങളോടുകൂടിയ മില്ലിമീറ്ററിൽ ഡൈമെൻഷൻ ചെയ്യുന്നു യൂണിറ്റുകൾ ഡൈമെൻഷൻസ്കളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു കാരണം അവ സാധാരണയായി മില്ലിമീറ്ററിലാണെന്ന് മനസ്സിലാക്കാം എല്ലാ ഡൈമെൻഷൻസ്ളും മില്ലീമീറ്ററായതിനാൽ 1 0 മില്ലീമീറ്റർ എഴുതുന്നതിനുപകരം നമ്മൾ അത്തരം സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോൾ ഉപയോഗിക്കും ഒബ്ജക്റ്റിനും ആദ്യത്തെ രേഖ അളവുകൾക്കുമിടയിൽ എല്ലായ്പ്പോഴും കുറഞ്ഞത് 10 മില്ലീമീറ്ററെങ്കിലും വിട്ടിരിക്കണം നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ഇവിടെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അവിടെ ഡൈമെൻഷൻസ്കൾ പരാമർശിക്കുന്നു വലിയ സർക്കിളുകൾ ഒഴികെ നിങ്ങൾ കാഴ്ചയ്ക്ക് പുറത്ത് ഡൈമെൻഷൻ സ്ഥാപിക്കുന്നു അതിനാൽ എല്ലാ ഡൈമെൻഷൻസ്കളും ഇവിടെ പുറത്ത് പരാമർശിച്ചിരിക്കുന്നു കാഴ്ചയിൽ നിന്ന് കുറഞ്ഞത് 10 മില്ലീമീറ്ററെങ്കിലും പരിപാലിക്കേണ്ടതുണ്ട് ഹ്രസ്വമായ ഇടങ്ങളിൽ പുറത്ത് ദൈർഘ്യമേറിയ ഡൈമെൻഷൻസ്കൾ സ്ഥാപിക്കുക ഡൈമെൻഷൻ രേഖകൾക്കിടയിൽ ഡൈമെൻഷൻ വാചകം സ്ഥാപിക്കുക സ്റ്റാൻഡേർഡ് പ്രാക്ടീസിൽ നിങ്ങൾ അതിനിടയിലാണ് ഇത് ഉപയോഗിക്കുന്നത് ചില സാഹചര്യങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന മറ്റൊരു രീതിയാണ് രേഖയുടെ മുകളിൽ ഡൈമെൻഷൻ സൂചിപ്പിക്കുക എന്നത് ഇതും അനുവദിച്ചിരിക്കുന്നു അളവുകളുടെ അവസാനം അമ്പടയാളങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അവസാന ഉദാഹരണത്തോടെ ഈ സെഷൻ അവസാനിപ്പിക്കാം ഇവിടെ ഞാൻ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണിക്കുന്നു എ ബി A B എന്നീ രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ ഏതാണ് ശരിയായ പ്രാതിനിധ്യ മാർഗം ചിത്രം എ ചിത്രം ബി എന്നിവ നോക്കാം ചിത്രം എ യുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചിത്രം ബി തെറ്റായ രീതിയിലാണ് പ്രതിനിധികരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ആണ് ഇത് ചർച്ച ചെയ്ത നിയമങ്ങൾ നമുക്ക് ഓർമിക്കാം ഒബ്ജക്റ്റിനുള്ളിൽ ഡൈമെൻഷൻസ്കൾ കാണിക്കരുത് അത് തെറ്റായ കാര്യമാണ് കുറഞ്ഞത് 1 മില്ലിമീറ്റർ മുതൽ 10 മില്ലിമീറ്റർ വരെ വിടവ് ഒബ്ജക്റ്റിൽ നിന്ന് അവശേഷിപ്പിക്കണം ഈ സാഹചര്യത്തിൽ ഒബ്ജക്റ്റ് ഈ നിലയിലായതിനാൽ ഇവ പിന്തുടരുന്നു അതിനാൽ ഈ ഡൈമെൻഷൻസ്കൾ ആ വസ്തുവിൽ നിന്ന് അകലെയാണ് എന്നാൽ ഇവിടെ ഡൈമെൻഷൻസ്കൾ ഒബ്ജക്റ്റിനുള്ളിലാണ് അതിനാൽ ഇത് തെറ്റായ രീതിയിലാണ് പ്രതിനിധികരിച്ചിരിക്കുന്നത് അതിനാൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡൈമെൻഷൻസ്കൾ അറിയാൻ ശ്രമിച്ചു സിലിണ്ടർ ഒബ്ജക്റ്റുകൾക്കും പ്ലാനർ ഒബ്ജക്റ്റുകൾക്കും അവ എങ്ങനെ പ്രതിനിധീകരിക്കാം കൂടാതെ ഈ ഡൈമെൻഷനിംഗിനായി ഉൾപ്പെട്ടിരിക്കുന്ന കുറച്ച് നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാൻ നമ്മൾ ശ്രമിച്ചു അടുത്ത ക്ലാസ്സിൽ ടോളറൻസുകളെക്കുറിച്ചും ഈ ടോളറൻസുകൾ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്നും അവ എന്തുകൊണ്ട് പ്രാധാന്യമർഹിക്കുന്നുവെന്നും നമ്മൾ കൂടുതലറിയും